ഹലോ സെക്യൂർ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് കോഴ്സിലെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം മുമ്പത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ യഥാർത്ഥത്തിൽ speculative execution നെക്കുറിച്ച് കണ്ടു കൂടാതെ Meltdown എന്നറിയപ്പെടുന്ന ഈ സമീപകാല ആക്രമണത്തെ പരിശോധിക്കുകയും ചെയ്തു ഈ വീഡിയോ ക്ലാസ്സിൽ specter എന്നു അറിയപ്പെടുന്ന മറ്റൊരു speculative ആക്രമണത്തെക്കുറിച്ച് നോക്കാം ഈ ആക്രമണം 2018 ജനുവരിയിൽ കണ്ടെത്തി കൂടാതെ ഇതു ഇന്റൽ പ്രോസസറുകളുടെ speculative execution ഉപയോഗപ്പെടുത്തുന്നു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ ഒരു പ്രോസസ്സറിലെ speculative execution ചെയ്യുന്നത് മുൻ നിർദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ പൂർത്തിയാകുന്നതിന് മുമ്പുതന്നെ ചില നിർദ്ദേശങ്ങൾ ഊഹത്തോടെ നടപ്പിലാക്കാൻ കഴിയും എന്നതാണ് ഉദാഹരണത്തിന് ഇവിടെ ഈ നിർദ്ദേശങ്ങൾ ഊഹത്തോടെ നടപ്പിലാക്കാൻ കഴിയും എന്നാൽ compare jump ഇൻസ്ട്രക്ഷൻ പൂർത്തിയാകുന്നതുവരെ ഈ നിർദ്ദേശങ്ങളുടെ results commit ചെയ്യില്ല Speculation ശരിയാണെങ്കിൽ മാത്രമേ ഈ നിർദ്ദേശങ്ങൾ commit ചെയ്യൂ അതിനാൽ ഒരു speculation ശരിയാണെങ്കിൽ ഈ result എല്ലാം ഉടനടി commit ചെയ്യുകയും അത് പ്രോഗ്രാമിന്റെ പ്രകടനം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും നമ്മൾ കാണുന്നു മറുവശത്ത് speculation തെറ്റാണെങ്കിൽ ഈ പ്രത്യേക വിലാസത്തിലേക്ക് ഒരു branching നടക്കുകയും ഈ ലേബലിനെ പിന്തുടരുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയും ചെയ്താൽ ഊഹത്തോടെ നടപ്പിലാക്കിയ എല്ലാ results ഉം ഉപേക്ഷിക്കേണ്ടതുണ്ട് ഇവിടെ ഇത് ഒരു perfomance ഓവർഹെഡ് ആയിരിക്കും പ്രോസസ്സറുകൾ speculation ശരിയായി നടപ്പിലാക്കാൻ പരമാവധി ശ്രമിക്കുന്നു ഈ compare നിർദ്ദേശത്തിന്റെ result എന്തായിരിക്കുമെന്ന് അവർ പ്രവചിക്കാൻ ശ്രമിക്കുകയും JNZ കഴിഞ്ഞുള്ള ഈ കോഡ് അല്ലെങ്കിൽ ലേബലിനെ പിന്തുടരുന്ന കോഡ് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും JNZ ന്റെ result നെ ആശ്രയിച്ചായിരിക്കും ഇതു നടക്കുന്നത് ഇത് നേടുന്നതിന് പ്രോസസറിൽ branch prediction ലോജിക് ചേർക്കുന്നു ഒരു ബ്രാഞ്ച് prediction logic ആ പ്രത്യേക നിർദ്ദേശത്തിൽ എടുത്ത എല്ലാ branch കളുടെയും ഒരു track സൂക്ഷിക്കും ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ ഒരു 2 ബിറ്റ് ബ്രാഞ്ച് predictor കാണിക്കുന്നു ബ്രാഞ്ച് prediction logic ആ നിർദ്ദേശം നടപ്പിലാക്കുമ്പോൾ മുമ്പ് സംഭവിച്ചതിനെ അടിസ്ഥാനമാക്കി ഒന്നുകിൽ ബ്രാഞ്ചുകൾ എടുക്കുമോ ഇല്ലയോ എന്നു പ്രവചിക്കും ഉദാഹരണത്തിന് ബ്രാഞ്ചുകൾ എടുക്കാത്ത പ്രവചനത്തിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നു ആ ലൂപ്പിന്റെ ആദ്യ ആവർത്തനം ബ്രാഞ്ച് എടുക്കുന്നതിന് കാരണമായെന്നു കരുതുക ബ്രാഞ്ച് പ്രവചനത്തിന്റെ അവസ്ഥ ഇവിടെ 00 ൽ നിന്ന് 01 ആയി വരുന്നു ലൂപ്പിന്റെ അടുത്ത ആവർത്തനത്തിൽ ബ്രാഞ്ച് വീണ്ടും എടുക്കുകയാണെങ്കിൽ ഈ ബ്രാഞ്ച് പ്രവചനത്തിന്റെ അവസ്ഥ predicted taken എന്നതിലേക്ക് നീങ്ങുന്നു അതിന്റെ value 11 ആണ് 3 ാമത്തെ തവണ jnz നടക്കുമ്പോൾ ബ്രാഞ്ച് predictor ബ്രാഞ്ച് എടുക്കുമെന്ന് യാന്ത്രികമായി പ്രവചിക്കുന്നത് കാണാം അതിനാൽ ബ്രാഞ്ച് predictor മുൻ branch കളെ അടിസ്ഥാനമാക്കി പഠിക്കുകയും ബ്രാഞ്ച് എടുക്കുമോ അതോ ബ്രാഞ്ച് എടുക്കുന്നില്ലേ എന്ന് പ്രത്യേക ബ്രാഞ്ചുകളുടെ ഫലം പ്രവചിക്കാൻ ശ്രമിക്കുകയാണെന്നും നമുക്ക് കാണാം തുടർന്നുള്ള speculation ന് മികച്ച കൃത്യതയുണ്ട് അതു പ്രകടനം വർദ്ധിപ്പിക്കും ഈ ബ്രാഞ്ച് പ്രവചനങ്ങളും speculation നും പ്രോഗ്രാമിൽ നിലവിലുള്ള രഹസ്യ ഡാറ്റ വായിക്കാൻ കഴിയുന്ന ഒരു ദുർബലതയ്ക്ക് കാരണമാകുമെന്നതാണ് സ്പെക്ടർ ആക്രമണങ്ങൾ കാണിക്കുന്നത് സ്പെക്ടർ ആക്രമണങ്ങൾ മനസിലാക്കാൻ നമുക്ക് ഒരു ചെറിയ code snippet എടുക്കാം array len ഉപയോഗിച്ച് x ന്റെ value പരിശോധിക്കുന്ന ഒരു if സ്റ്റേറ്റ്മെന്റ് ഈ കോഡിൽ ഉണ്ട് X ന്റെ മൂല്യം array len ക്കാൾ കുറവാണെങ്കിൽ index X ൽ ഈ അറേയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയും ആ array യുടെ മൂല്യം i ലേക്ക് എടുക്കുകയും ചെയ്യുന്നു i 256 എന്ന സ്ഥാനത്ത് array2 എന്ന രണ്ടാമത്തെ അറേയും access ചെയ്യാൻ ശ്രമിക്കുന്നു അതിന്റെ result y എന്ന ഈ variable ൽ സംഭരിക്കപ്പെടുന്നു അതിനാൽ ഇവിടെ നമ്മൾ കാണുന്നത് arrayx വ്യക്തമാക്കിയ ഒരു സ്ഥാനത്ത് array2 ആക്സസ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത് പ്രക്രിയയുടെ user space ആണ് ഇവിടെ ഒരു രഹസ്യ വിവരം ഉണ്ടെന്നും ആക്രമണകാരികൾ ഈ രഹസ്യ വിവരത്തിന്റെ ചില ഭാഗങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് കരുതുക കോഡിന്റെ ഈ ചെറിയ സ്നിപ്പെറ്റിന്റെ മറ്റ് ഘടകങ്ങൾ എക്സ് array array2 എന്നിവയും പ്രോസസിന്റെ ഈ യൂസർ സ്പേസ് ഭാഗത്ത് കാണിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ അറേ എക്സ് ഉം അറേ 2 ഉം array len നും ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ i യുടെ value പരിഗണിക്കുന്നില്ല കൂടാതെ i ഈ പ്രക്രിയയിൽ user space ൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അല്ലെങ്കിൽ i അതിന്റെ ഭാഗമാകുമെന്ന് അനുമാനിക്കാം i y എന്നിവ രജിസ്റ്ററുകളിൽ സംഭരിക്കാൻ പോകുന്നു സാധാരണ സാഹചര്യങ്ങളിൽ ഈ ചെറിയ സ്നിപ്പെറ്റ് എക്സിക്യൂഷൻ എങ്ങനെ നടക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ലോഡ് നിർദ്ദേശങ്ങളുണ്ട് ഒന്ന് ഈ വേരിയബിൾ x നുള്ള ലോഡും രണ്ടാമത്തേതു array len നുള്ള ലോഡും ഈ 2 ലോഡുകളും എക്സ് array len എന്നിവ രജിസ്റ്ററുകളിലേക്ക് ലോഡ് ചെയ്യുന്നതിന് കാരണമാവുകയും ആ പ്രത്യേക പ്രക്രിയയിൽ ഇത് കാഷെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുകയും ചെയ്യും ഇവിടെ കാണിച്ചിരിക്കുന്നതെന്തെന്നാൽ x ഉം array line നും തമ്മിൽ ഉള്ള ഒരു comparison ആണ് ഇപ്പോൾ നമ്മൾ കരുതുന്നത് പോലെ x യഥാർത്ഥത്തിൽ array len നേക്കാൾ കുറവാണെങ്കിൽ if condition true ആവുകയും ഈ രണ്ട് നിർദ്ദേശങ്ങളും execute ആവുകയും ചെയ്യും ഇപ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് കരുതുക അടുത്തതായി നമ്മൾ കാണുന്നത് if statement കഴിഞ്ഞാൽ array യിലേക്ക് ഇൻഡെക്സ് ചെയ്യുന്നതിനും arrayx ന് അനുബന്ധമായി ഒരു ഡാറ്റാ ബ്ലോക്ക് കാഷെയിലേക്ക് ലോഡുചെയ്യുന്നതിനും x ഉപയോഗിക്കുന്നു എന്നതാണ് ഈ ഡാറ്റ കാഷെയിലേക്കും i എന്ന് നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു രജിസ്റ്ററിലേക്കും ലോഡുചെയ്തിട്ടുണ്ടെന്ന് അനുമാനിക്കാം അടുത്തതായി നമ്മൾ കാണുന്നത് ഈ i പിന്നീട് array2 ലേക്ക് ഇൻഡെക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കാഷെയിലോ രജിസ്റ്ററിലോ ഉള്ള ഈ i array2 ലേക്ക് ഇൻഡെക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നു കൂടാതെ array2 ൽ നിലവിലുള്ള ഒരു ഡാറ്റ ബ്ലോക്ക് കാഷെ മെമ്മറിയിലേക്ക് ലോഡുചെയ്യാൻ കാരണമാകുന്നു സാധാരണയായി x array len നേക്കാൾ കുറവാണെങ്കിൽ ഈ എക്സിക്യൂഷന്റെ അവസാനം നമുക്ക് കാഷെ മെമ്മറിയിൽ array len എക്സ് എന്നിവയും 2 ബ്ലോക്ക് ഡാറ്റയും ഉണ്ട് എന്നതാണ് ഒന്ന് കാഷെയിലെ i ക്കും മറ്റൊന്ന് y ക്കും corresponding ആണ് ഈ ഡാറ്റയെല്ലാം കാഷെയിൽ ഉണ്ടാകും x യഥാർത്ഥത്തിൽ array len നേക്കാൾ കുറവാണെങ്കിൽ ഇത് സാധാരണ പോലെ ആയിരിക്കും ഒരു array എല്ലായ്പ്പോഴും അതിന്റെ bound നുള്ളിൽ തന്നെയാണ് ഇൻഡക്സ് ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കുന്നതിന് ഇത്തരം പരിശോധനകൾ പ്രോഗ്രാമുകളിൽ വളരെ സാധാരണമാണെന്ന് ശ്രദ്ധിക്കുക കോഡിന്റെ ഈ ചെറിയ സ്നിപ്പെറ്റ് ഒരു ലൂപ്പിലാണെന്നും നമ്മൾ ഇതിനെ ഒന്നിലധികം തവണ വിളിക്കുന്നു എന്നും കരുതുക തൽഫലമായി ഇവിടെ ഒരു ബ്രാഞ്ച് instruction ഉണ്ടെങ്കിൽ ഈ 3 പ്രസ്താവനകളുടെ ആവർത്തിച്ചുള്ള invocation ബ്രാഞ്ച് നടക്കുന്നില്ലെന്ന് പ്രവചിക്കാൻ ബ്രാഞ്ച് predictor നെ ട്യൂൺ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം ബ്രാഞ്ച് predictor എന്തുചെയ്യുമെന്നത് പരിഗണിക്കുകയാണെങ്കിൽ if statements ന്റെ invocation array len നേക്കാൾ x കുറവാണെന്ന വ്യവസ്ഥ എന്നിവ ഉപയോഗിച്ച് ബ്രാഞ്ച് predictor ഈ പ്രത്യേക അവസ്ഥയിലേക്ക് അതായത് branch not taken എന്നു കണക്കാക്കപ്പെടുന്നു അതിനാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ഈ നിർദ്ദേശങ്ങൾ i arrayx y array2i256 എന്നിവ speculatively നടപ്പിലാക്കാൻ പ്രോസസ്സറിന് കഴിയും ഇപ്പോൾ ഈ പ്രത്യേക കേസ് പരിഗണിക്കുക x ഇതിനകം കാഷെയിലേക്ക് ലോഡ് ചെയ്തു കൂടാതെ കാഷെയിൽ ഇതിനകം തന്നെ secret ഡാറ്റയുണ്ട് പക്ഷേ array len കാഷെയിൽ ഇല്ല എന്നിട്ട് ഈ പ്രസ്താവനകളുടെ execution വീണ്ടും പരിഗണിക്കുക എന്നാൽ x array len നേക്കാൾ വലുതാണെന്ന് പരിഗണിക്കുക സാധാരണ ഇവിടെ സംഭവിക്കേണ്ടതെന്തെന്നാൽ x എന്നത് array len നേക്കാൾ വലുതോ തുല്യമോ ആയതിനാൽ ഈ പ്രസ്താവനകൾ എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല ഇവിടെ x array len നേക്കാൾ വലുതായതിനാൽ if condition നുള്ളിലെ പ്രസ്താവനകൾ നടപ്പിലാക്കാൻ കഴിയില്ല അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പ്രോഗ്രാം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം Array len കാഷെയിൽ ഇല്ലെന്നും ബ്രാഞ്ച് predictor prediction not taken എന്ന അവസ്ഥയിലാണെന്നു സ്വയം മനസിലാക്കി എന്നും നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ സംഭവിക്കുന്നതെന്തെന്നാൽ array len നേക്കാൾ x വലുതാണെങ്കിലും if condition ലെ ഈ നിർദ്ദേശങ്ങൾ speculatively നടപ്പിലാക്കും ആദ്യം array len കാഷെയിൽ ഇല്ലാത്തതിനാൽ ഇത് ചില കാഷെ miss ന് കാരണമാകുമെന്നും അത് ഗണ്യമായ സമയമെടുക്കുമെന്നും പ്രധാന മെമ്മറിയിൽ നിന്നും കാഷെ മെമ്മറിയിലേക്ക് array len ലോഡുചെയ്യാൻ കാരണമാകുമെന്നും ഞങ്ങൾ കാണുന്നു മറുവശത്ത് മറ്റ് ഘടകങ്ങൾ x കാഷെയിൽ ഉണ്ട് ഒപ്പം x ന്റെ value secrets അടങ്ങിയ ചില സ്ഥാനങ്ങൾ കൊണ്ട് പൂരിപ്പിക്കുന്നു അതിനാൽ കാഷെയിൽ രഹസ്യം ഉള്ളതിനാൽ i arrayx വളരെ വേഗത്തിൽ വിലയിരുത്താൻ കഴിയും അതുപോലെ തന്നെ കാഷെയിലെ ചില സ്ഥാനങ്ങളിൽ array x ന്റെ value അടങ്ങിയിരിക്കും അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഈ array2 ലേക്ക് ഇൻഡെക്സ് ചെയ്യുന്നതിനും array2 ന്റെ ഉള്ളടക്കങ്ങൾ കാഷെ മെമ്മറിയിലേക്ക് ലോഡുചെയ്യുന്നതിനും ഞങ്ങൾ ഈ പ്രത്യേക secret value ഉപയോഗിക്കുന്നു എന്നതാണ് ഈ പ്രക്രിയ നടക്കുമ്പോൾ array len കാഷെ മെമ്മറിയിലെത്തിയെന്ന് നമ്മൾ അനുമാനിക്കുന്നു എക്സ് array len എന്നിവ എത്തിയതിനാൽ ഈ പ്രത്യേക statement ലെ ഈ check ഒടുവിൽ invoke ചെയ്യും പക്ഷേ array len നേക്കാൾ x വലുതാണെന്ന് പ്രോസസർ മനസിലാക്കിയാൽ ഇതിനകം ചെയ്ത എല്ലാ speculative execution ഉം ഉപേക്ഷിക്കണം അതിനാൽ ഈ പ്രക്രിയ ഊഹത്തോടെ നിർവഹിച്ച എല്ലാ നിർദ്ദേശങ്ങളും ഉപേക്ഷിക്കും പ്രവചനം തെറ്റായതു കാരണം കാഷെയിൽ array2 ന്റെ ചില ഘടകങ്ങളുണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഈ ഘടകം arrayx ന്റെ മൂല്യത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും നമ്മൾ കണ്ടു ഞങ്ങൾ arrayx നു മതിയായ മൂല്യം നൽകിയിട്ടുണ്ട് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു ബഫർ ഓവർഫ്ലോ ഉണ്ടാക്കുകയും അതു secret ലേക്ക് point ചെയ്യുകയും ചെയ്യുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ സ്ഥാനത്തെ കാഷെയിലേക്ക് ലോഡുചെയ്തത് പ്രധാനമായും secret location ന്റെ പ്രവർത്തനമാണ് ആക്രമണകാരി അടുത്തതായി ചെയ്യേണ്ടത് array2 ലെ ഏത് ബ്ലോക്കാണ് യഥാർത്ഥത്തിൽ കാഷെയിലേക്ക് ലോഡ് ചെയ്തതെന്ന് തിരിച്ചറിയുക എന്നതാണ് ഇതിനായി അദ്ദേഹം ചെയ്യുന്നത് array2 ലെ എല്ലാ ഘടകങ്ങളും ആക്സസ് ചെയ്യാൻ ആരംഭിക്കുന്നു എന്നതാണ് അവർ ആദ്യ ഘടകം ആക്സസ് ചെയ്യുന്നു ഈ ആക്സസ്സ് വളരെയധികം സമയമെടുക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു കാരണം ആദ്യത്തെ ഘടകം കാഷെയിൽ ഇല്ലാത്തതിനാൽ രണ്ടാമത്തെ ഘടകം ആക്സസ് ചെയ്യാൻ ശ്രമിക്കുംവീണ്ടും അയാൾക്ക് ഒരു കാഷെ മിസ് ലഭിക്കും അതിനാൽ ഇതു കൂടുതൽ execution സമയം എടുക്കും ഒരു പ്രത്യേക ഘടകം കുറഞ്ഞ സമയം എടുക്കുന്നുവെന്ന് കണ്ടെത്തുന്നതുവരെ ഇത് വീണ്ടും വീണ്ടും തുടരുന്നു ഈ ഘടകം കാഷെയിൽ ഉള്ളതിനാലാണ് ഈ ഹ്രസ്വ സമയം speculatively execute ചെയ്ത രഹസ്യ വിവരം കാരണം ആണ് ഈ ഘടകം കാഷെയിലാണെന്നത് ശ്രദ്ധിക്കുക അത് speculation ന് കാരണമാവുകയും ആക്രമണകാരിക്ക് രഹസ്യത്തിലെ ഉള്ളടക്കങ്ങളെക്കുറിച്ച് ചില വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു നന്ദി